ഈ സെഷനിലേക്ക് സ്വാഗതം ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ടെക്നിക്കുകളെക്കുറിച്ച് ഞങ്ങൾ മുൻ സെഷനുകളിൽ ചർച്ച ചെയ്യുകയായിരുന്നു തുല്യമായ ക്ലാസ് ടെസ്റ്റിംഗും പ്രത്യേക മൂല്യ പരിശോധനയും ആയ രണ്ട് പ്രധാനപ്പെട്ട ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ടെക്നിക്കുകൾ ഞങ്ങൾ നോക്കി ഇപ്പോൾ നമുക്ക് മറ്റൊരു ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ടെക്നിക്കായ കോമ്പിനേറ്റോറിയൽ ടെസ്റ്റിംഗ് നോക്കാം ആദ്യം കോമ്പിനേറ്റർ പരിശോധനയ്ക്ക് പിന്നിലെ പ്രചോദനം നമുക്ക് നോക്കാം ഒരു കാര്യം തുല്യതാ ക്ലാസ് ടെസ്റ്റിംഗിലും ഒരു പ്രത്യേക മൂല്യ പരിശോധനയിലും പരാമീറ്ററുകളുടെ എണ്ണം ഉയരുമ്പോൾ ടെസ്റ്റ് കേസുകൾ രൂപകൽപ്പന ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകും കൂടാതെ ചിലപ്പോൾ നമുക്ക് പാരിസ്ഥിതിക കോൺഫിഗറേഷനുകളും ഉണ്ട് അത് ഫലത്തെ ബാധിക്കും ഉദാഹരണത്തിന് ഞങ്ങൾ ഒരു പ്രോഗ്രാം വിദഗ്ദ്ധ മോഡിൽ അല്ലെങ്കിൽ ഒരു പുതിയ മോഡിൽ അല്ലെങ്കിൽ മിതമായ മോഡിൽ സജ്ജമാക്കുകയാണെങ്കിൽ പ്രോഗ്രാം വ്യത്യസ്തമായി പെരുമാറുന്ന പരിസ്ഥിതി കോൺഫിഗറേഷനുകളാണ് ഞങ്ങൾക്ക് മറ്റ് സംസ്ഥാന വേരിയബിളുകൾ ഉണ്ടായിരിക്കാം അത് പ്രോഗ്രാമിന്റെ വ്യത്യസ്ത ഘടകങ്ങളെയും വ്യത്യസ്ത ഘടകങ്ങളുടെ പെരുമാറ്റത്തെയും ബാധിച്ചേക്കാം ഉദാഹരണത്തിന് ഒരു പുസ്തകം പുറപ്പെടുവിക്കുകയും തുടർന്ന് പുസ്തകത്തിന്റെ പെരുമാറ്റം ഇതിനകം പുറപ്പെടുവിച്ച ഇഷ്യു നടപടിക്രമമാണ് തുടർന്ന് ഞങ്ങൾക്ക് പുസ്തക പ്രശ്നം ഉണ്ടാകും പുസ്തക പ്രശ്നത്തിന്റെ പെരുമാറ്റം വ്യത്യസ്തമായിരിക്കും വളരെ നിസ്സാരമായ ഒരു കേസ് പക്ഷേ വ്യത്യസ്ത ഘടകങ്ങൾക്ക് നമുക്ക് കൂടുതൽ സങ്കീർണ്ണമായ സംസ്ഥാന പ്രാതിനിധ്യം ഉണ്ടായേക്കാം അതിനാൽ ഈ സാഹചര്യത്തിൽ തുല്യത ക്ലാസുകൾ രൂപകൽപ്പന ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ് ഘടകങ്ങൾ 3 4 ൽ കൂടുതൽ പാരാമീറ്ററുകൾ ആയിരിക്കുമ്പോൾ കൂടാതെ ചിലപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ധാരാളം ബൂളിയൻ അവസ്ഥകളുണ്ട് ബൂലിയൻ വേരിയബിളുകൾ പ്രത്യേകിച്ചും യൂസർ ഇന്റർഫേസുകളിലും കൺട്രോളർ ആപ്ലിക്കേഷനുകളിലും ഉണ്ട് ഇവയിൽ ധാരാളം ഉണ്ട് ഉദാഹരണത്തിന് ഇത് പവർ പോയിന്റ് സോഫ്റ്റ്വെയറിനായുള്ള ഒരു ഫോണ്ട് ക്രമീകരണമാണെന്ന് നമുക്ക് പറയാം ചെറിയ ക്യാപ് എല്ലാ ക്യാപ് ഇക്വലൈസ് സൂപ്പർസ്ക്രിപ്റ്റ് സബ്സ്ക്രിപ്റ്റ് തുടങ്ങിയവ തിരഞ്ഞെടുക്കുന്നുണ്ടോ എന്നതിനെ ആശ്രയിച്ച് ഇവിടെ കാണുക കൂടാതെ വലുപ്പം ഫോണ്ട് ശൈലി ടെക്സ്റ്റ് ഫോണ്ട് മുതലായവ നിറം മുതലായവയുടെ മൂല്യങ്ങളുടെ എണ്ണം ഇവിടെയുണ്ട് നമുക്ക് വ്യത്യസ്തമായ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് അതിനാൽ ഫോണ്ട് വ്യത്യസ്തമായി കാണപ്പെടും അതിനാൽ ഈ ക്രമീകരണങ്ങളുടെ ഒരു പ്രത്യേക കോമ്പിനേഷനായി ഫോണ്ട് മാഞ്ഞുപോകുമോ അതോ ഫോണ്ട് ദൃശ്യമാകില്ലേ എന്ന് ഞങ്ങൾക്ക് അറിയില്ല ഉദാഹരണത്തിന് ടെക്സ്റ്റ് ഫോണ്ട് ബോഡിയാണെങ്കിൽ ഫോണ്ട് സ്റ്റൈൽ സാധാരണ അല്ലെങ്കിൽ ബോൾഡ് എന്ന് പറയട്ടെ തുടർന്ന് വലുപ്പം 38 ആണ് തുടർന്ന് ഫോണ്ട് നിറം ചുവപ്പായിരിക്കും തുടർന്ന് സൂപ്പർസ്ക്രിപ്റ്റ് ഓണാക്കുകയും എല്ലാ ക്യാപ്കളും ഓൺ ചെയ്യുകയും ചെയ്താൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ട് അതിനാൽ ഈ സാഹചര്യങ്ങളിൽ തുല്യത ക്ലാസ് പാർട്ടീഷനുകൾ നമുക്ക് എങ്ങനെ ലഭിക്കും എന്നത് ബുദ്ധിമുട്ടാണ് നമുക്ക് നിരവധി പാരാമീറ്ററുകൾ ഉണ്ട് ചില പാരാമീറ്ററുകൾ നേരിട്ട് ഇൻപുട്ട് ചെയ്യുന്നു ചില പാരാമീറ്ററുകൾ സ്റ്റേറ്റ് വേരിയബിളുകൾ അല്ലെങ്കിൽ എൻവയോൺമെന്റ് വേരിയബിളുകൾ ആണെന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്ന കോമ്പിനേറ്റർ ടെസ്റ്റിംഗ് പ്രശ്നം നോക്കാം ആ പരാമീറ്ററുകളുടെ പ്രത്യേക കോമ്പിനേഷനുകൾക്കായി ഞങ്ങൾ പരീക്ഷിക്കേണ്ടതുണ്ട് കാരണം പ്രശ്നമുണ്ടാകാം ഞങ്ങൾ മൂന്ന് കോമ്പിനേറ്ററൽ ടെസ്റ്റിംഗ് ടെക്നിക്കുകൾ നോക്കും തീരുമാന പട്ടിക അടിസ്ഥാനമാക്കിയുള്ള പരിശോധന കോസ് ഇഫക്റ്റ് ഗ്രാഫിംഗ് ജോഡി തിരിച്ചുള്ള പരിശോധന ആദ്യം നമുക്ക് തീരുമാന പട്ടിക അടിസ്ഥാനമാക്കിയുള്ള സാങ്കേതികത നോക്കാം തീരുമാന പട്ടിക അടിസ്ഥാനമാക്കിയുള്ള പരിശോധനയിൽ പ്രശ്ന വിവരണത്തെ അടിസ്ഥാനമാക്കി ഞങ്ങൾ ഒരു തീരുമാന പട്ടിക വികസിപ്പിക്കുന്നു അതിനാൽ ഇത് ഒരു പ്രശ്നത്തിനുള്ള ബ്ലാക്ക് ബോക്സ് സ്പെസിഫിക്കേഷനാണ് തുടർന്ന് അത് നോക്കിക്കൊണ്ട് ഞങ്ങൾ ഈ തീരുമാന പട്ടിക വികസിപ്പിക്കുന്നു തീരുമാന പട്ടികയിൽ നിങ്ങൾ ഇവിടെ കാണുകയാണെങ്കിൽ മേശയുടെ മുകളിൽ ദൃശ്യമാകുന്ന വ്യവസ്ഥകൾ ഞങ്ങൾക്കുണ്ട് അതിനാൽ ഇൻപുട്ട് പരാമീറ്ററുകളിലെ വ്യവസ്ഥകൾ ഇവയാണ് എന്തെങ്കിലും സ്വിച്ച് ഓൺ ചെയ്യുകയോ മറ്റെന്തെങ്കിലും സ്വിച്ച് ഓഫ് ചെയ്യുകയോ ചെയ്താൽ അവയുടെയും മറ്റും സംയോജനം നിർദ്ദിഷ്ട വ്യവസ്ഥകൾ നിലനിൽക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ചില പ്രവർത്തനങ്ങൾ ഉണ്ടാകും അതിനാൽ ഇതിനെ ഞങ്ങൾ ഒരു ചട്ടം പോലെ വിളിക്കുന്നു നിലനിൽക്കുന്ന സാഹചര്യങ്ങൾ സാധ്യമായ എല്ലാ അവസ്ഥകളും അവയുടെ മൂല്യങ്ങളുടെ സംയോജനവും ഞങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട് തുടർന്ന് എന്ത് പ്രവർത്തനങ്ങൾ നടക്കുമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ഒന്നിലധികം പ്രവർത്തനങ്ങൾ ഉണ്ടാകാം അത് സംഭവിച്ചേക്കാം ഇവിടെ ഈ ഓരോ നിരയും ഞങ്ങൾ ഒരു ചട്ടം പോലെ വിളിക്കുന്നു ഉദാഹരണത്തിന് c1 c2 അല്ലെങ്കിൽ c3 ആണെങ്കിൽ ഇവിടെയുള്ള ഒരു അവസ്ഥ അതിനാൽ c1 c2 c3 എന്നിവ ഇൻപുട്ട് പരാമീറ്ററുകളാണ് ഇൻപുട്ട് പാരാമീറ്റർ c1 ശരിയാണ് c2 സത്യമാണ് അല്ലെങ്കിൽ c3 ശരിയാണെങ്കിൽ നമുക്ക് A1 പ്രവർത്തനമുണ്ട് അതിനാൽ നമുക്ക് പരാമീറ്ററുകളുടെ എണ്ണം ഉള്ള ഒരു പ്രശ്നം നൽകിയാൽ ആ പരാമീറ്ററുകളിലെ ചില വ്യവസ്ഥകളെ അടിസ്ഥാനമാക്കി നമുക്ക് ചില പ്രവർത്തനങ്ങൾ നടക്കുന്നു നമുക്ക് ഈ തീരുമാന പട്ടിക വികസിപ്പിക്കാം തീർച്ചയായും നമ്മൾ സാധ്യമായ എല്ലാ സാഹചര്യങ്ങളുടെയും കോമ്പിനേഷനുകൾ പരിഗണിക്കുന്നതിൽ ശ്രദ്ധാലുക്കളായിരിക്കണം അതിനാൽ ഒരു പ്രശ്നം നൽകിയാൽ നമുക്ക് പരാമീറ്ററുകളുടെ എണ്ണം ഉണ്ട് ആ പരാമീറ്ററുകളിലെ ചില വ്യവസ്ഥകളെ അടിസ്ഥാനമാക്കി നമുക്ക് ചില പ്രവർത്തനങ്ങൾ നടക്കുന്നു നമുക്ക് ഈ തീരുമാന പട്ടിക വികസിപ്പിക്കാം തീർച്ചയായും ഞങ്ങൾ സാധ്യമായ എല്ലാ സാഹചര്യങ്ങളുടെയും സംയോജനം പരിഗണിക്കുന്നതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി നമുക്ക് ഒരു ഉദാഹരണം നോക്കാം ഒരു ത്രികോണത്തിന്റെ മൂന്ന് വശങ്ങൾ വായിക്കുന്ന ഒരു പ്രോഗ്രാം ഞങ്ങൾ എഴുതി എന്ന് പറയാം എന്നിട്ട് അത് ത്രികോണമാണോ അത് നിങ്ങൾ പ്രവേശിച്ച മൂന്ന് വശങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ത്രികോണമല്ല അത് ഒരു ത്രികോണമല്ല അത് ഒരു സ്കെയിൽ ആണ് അതിന്റെ ഐസോസെൽസ് സമഭുജമാണോ എന്ന് കാണിക്കുന്നു അതിനാൽ A5 തന്നിരിക്കുന്നതുപോലെ തന്നെ A 5 യഥാർത്ഥത്തിൽ അസാധുവാണ് നമുക്ക് പരിഗണിക്കാം ഞങ്ങൾ ഇവിടെ വ്യത്യസ്ത വ്യവസ്ഥകൾ ഉണ്ടാക്കുന്നു അതിനാൽ c1 എന്നത് b plus c നേക്കാൾ കുറവാണ് b സി പ്ലസ് എയിൽ കുറവാണ് സി പ്ലസ് ബിയിൽ കുറവാണ് C2 എന്നത് a ആണ് b സി 3 എ സിക്ക് തുല്യമാണ് കൂടാതെ C 4 b c ന് തുല്യമാണ് അതിനാൽ ഇവിടെ ചില പ്രത്യേക കോമ്പിനേഷനുകളെ ആശ്രയിച്ച് ഞങ്ങൾ ഈ പ്രവർത്തനങ്ങൾ പ്രദർശിപ്പിക്കും ഇതിന്റെ അടിസ്ഥാനത്തിൽ a b c എന്നിവയുടെ മൂല്യങ്ങൾ നമുക്ക് ടെസ്റ്റ് കേസുകൾ ഉണ്ടാകും തീരുമാന പട്ടികയിൽ നിന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷിച്ച outputട്ട്പുട്ടും ഉണ്ട് അതിനാൽ ഈ വരികൾ ഓരോന്നും ഒരു ടെസ്റ്റ് കേസായി മാറുന്നു നമുക്കും ഈ രൂപത്തിൽ എഴുതാം a b പ്ലസ് സിയിൽ കുറവാണ് b ഒരു പ്ലസ് സിയിൽ കുറവാണ് കൂടാതെ c എന്നത് ഒരു പ്ലസ് ബിയിൽ കുറവാണ് അവയിലേതെങ്കിലും തെറ്റാണെങ്കിൽ അത് ഒരു ത്രികോണമല്ലെന്ന് ഞങ്ങൾ പറയുന്നു എ ബി സി സി എ എന്നിവ സിക്ക് തുല്യമാണെങ്കിൽ ഇവയെല്ലാം ശരിയാണെങ്കിൽ ഇത് ഒരു സമഭുജ ത്രികോണമാണെന്നും അങ്ങനെയാണെന്നും ഞങ്ങൾ എഴുതുന്നു അതിനാൽ ഞങ്ങൾക്ക് ടെസ്റ്റ് കേസുകളും അവയുടെ പ്രതീക്ഷിച്ച ഫലങ്ങളും ഉണ്ടാകും ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം നമുക്ക് പ്രിന്റർ ഡയഗ്നോസിസ് സോഫ്റ്റ്വെയർ ഉണ്ടെന്ന് പറയുക അവിടെ നമ്മൾ അവസ്ഥയിൽ പ്രവേശിക്കുകയും അത് ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നു ഉദാഹരണത്തിന് പ്രിന്റർ പ്രിന്റ് ചെയ്യാത്തതും ചുവന്ന ലൈറ്റ് മിന്നുന്നതും ആണെങ്കിൽ പ്രിന്റർ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ മഷി ചെക്ക് പേപ്പർ ജാം പരിശോധിച്ച് മാറ്റിസ്ഥാപിക്കും അവയിൽ മൂന്നും ഞങ്ങളുടെ പക്കലുണ്ടെങ്കിൽ അതെ അത് പ്രിന്റർ കമ്പ്യൂട്ടർ കേബിൾ പരിശോധിക്കുന്നു അതിനാൽ നിങ്ങളുടെ പ്രിന്റർ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുകയും മഷി പരിശോധിക്കുകയും മാറ്റിസ്ഥാപിക്കുകയും ചെയ്യുന്നു അതിനാൽ നമ്മൾ പ്രവേശിക്കുന്ന നിർദ്ദിഷ്ട വ്യവസ്ഥകൾക്കായി നമ്മൾ പ്രവേശിക്കുന്ന നിർദ്ദിഷ്ട വ്യവസ്ഥകളുടെ മൂല്യങ്ങൾ പ്രോഗ്രാം എന്ത് പ്രവർത്തനം നടത്തണമെന്ന് പ്രദർശിപ്പിക്കും തുടർന്ന് സാധ്യമായ എല്ലാ കോമ്പിനേഷനുകളും ഞങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട് കാരണം ഉപയോക്താവ് സാധ്യമായ ഏതെങ്കിലും കോമ്പിനേഷനുകൾ നൽകാം പ്രിന്റർ പ്രിന്റ് ചെയ്യാത്തതും പ്രിന്റർ തിരിച്ചറിയാത്തതും അല്ലെങ്കിൽ മൂന്ന് റീട്ടണും മറ്റും ആകാം അതിനാൽ ഞങ്ങൾ തീരുമാന പട്ടികയെ പ്രതിനിധാനം ചെയ്യുന്നു തുടർന്ന് ഞങ്ങൾ ഓരോന്നും ഒരു ചട്ടമായി കണക്കാക്കുന്നു ഇത് ഞങ്ങളുടെ ടെസ്റ്റ് കേസ് ഉണ്ടാക്കുന്നു അതിനാൽ ഞങ്ങൾക്ക് ഇൻപുട്ട് മൂല്യങ്ങളുണ്ട് കൂടാതെ എന്ത് പ്രവർത്തനങ്ങൾ പ്രതീക്ഷിക്കണമെന്നും ഞങ്ങൾക്ക് ഉണ്ട് ഇത് ഒരു ടെസ്റ്റ് കേസിന് ആവശ്യമാണ് ഇനി നമുക്ക് ഒരു ചെറിയ ക്വിസ് നടത്താം ഫ്ലൈറ്റ് പകുതിയിലധികം ആണെങ്കിൽ ഫ്ലൈറ്റ് പകുതിയിലധികം ടിക്കറ്റിന്റെ വില 3000 ൽ കൂടുതലാണ് ഒരു ഫ്ലൈറ്റിൽ ഞങ്ങൾക്ക് പോളിസി ഉണ്ടെന്ന് കരുതുക ഇത് ഒരു ആഭ്യന്തര വിമാനമല്ലെങ്കിൽ സൌജന്യ ഭക്ഷണം നൽകും എല്ലാ ആഭ്യന്തര വിമാനങ്ങളിലും ഭക്ഷണം ഈടാക്കും തീരുമാന പട്ടിക പരിശോധന ഞങ്ങൾ എങ്ങനെ വികസിപ്പിക്കും അത്തരമൊരു സാഹചര്യത്തിനായി തീരുമാന പട്ടിക പരിശോധന കേസുകൾ രൂപകൽപ്പന ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ ഇത് ചെയ്യാൻ ശ്രമിക്കുക ഫ്ലൈറ്റ് പകുതിയിലധികം നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരു പാരാമീറ്ററായി മാറുന്നു ഫ്ലൈറ്റ് പകുതി നിറഞ്ഞോ ഇല്ലയോ ടിക്കറ്റ് നിരക്ക് 3000 ആണെങ്കിൽ അല്ലെങ്കിൽ 3000 ൽ കൂടുതലോ അല്ലെങ്കിലോ അല്ലെങ്കിലോ സൌജന്യ ഭക്ഷണം വിളമ്പുന്നത് ഒരു പ്രവൃത്തിയാണ് ഇത് ഒരു ആഭ്യന്തര ഫ്ലൈറ്റ് ആണ് അല്ലെങ്കിൽ അത് മറ്റൊരു ഇൻപുട്ട് പാരാമീറ്ററാണ് കൂടാതെ എല്ലാ ആഭ്യന്തര വിമാനങ്ങൾക്കും ഭക്ഷണം ഈടാക്കും അതിനാൽ ഇതിനായി ഞങ്ങൾ തീരുമാന പട്ടിക വികസിപ്പിക്കേണ്ടതുണ്ട് ദയവായി ഇത് പരീക്ഷിക്കൂ പക്ഷേ ഇതിനുള്ള പരിഹാരം ഞാൻ പ്രദർശിപ്പിക്കട്ടെ അതുവഴി നിങ്ങൾക്ക് ഞങ്ങളുടെ ഉത്തരം പരിശോധിക്കാനാകും മൂന്ന് ഇൻപുട്ട് വ്യവസ്ഥകളുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞതുപോലെ ഒന്ന് പകുതിയിലധികം നിറഞ്ഞിരിക്കുന്നു ടിക്കറ്റ് വില 3000 ൽ കൂടുതലാണ് അത് ഒരു ആഭ്യന്തര വിമാനമാണോ അല്ലയോ അതിനാൽ എല്ലാം ഇല്ലെങ്കിൽ അത് ഒരു ആഭ്യന്തര വിമാനമല്ല 3000 ൽ കൂടുതൽ 3000 ൽ കൂടരുത് ഞങ്ങൾ സൌജന്യ ഭക്ഷണം നൽകില്ല ഇത് 3000 ൽ കൂടാത്തിടത്തോളം ആണെങ്കിൽ ഞങ്ങൾ സൌജന്യ ഭക്ഷണം നൽകില്ല ഇത് 3000 ൽ കൂടുതലാണെങ്കിലും ഇത് ഒരു ആഭ്യന്തര വിമാനമാണെങ്കിൽ ഞങ്ങൾ സൌജന്യ ഭക്ഷണം നൽകില്ല അത് പകുതിയിലധികം നിറഞ്ഞിട്ടില്ലെങ്കിൽ അത് ആഭ്യന്തര വിമാനമാണ് വ്യക്തമായും ഞങ്ങൾ സൌജന്യ ഭക്ഷണം നൽകുന്നില്ല ക്ഷമിക്കണം ഞങ്ങൾ ഭക്ഷണം വിളമ്പുന്നില്ല ഭക്ഷണം പകുതിയിൽ കൂടുതൽ ഒരു സീറ്റിൽ 3000 ൽ കൂടുതൽ അത് ഒരു ആഭ്യന്തര വിമാനമല്ലെങ്കിൽ മാത്രമേ സൌജന്യമായി നൽകൂ എന്നാൽ പകുതിയിലധികം നിറയുമ്പോഴാണ് ഭക്ഷണം നൽകുന്നത് അത് ഒരു ആഭ്യന്തര വിമാനമല്ല ടിക്കറ്റ് നിരക്ക് 3000 ൽ കൂടുതലല്ല കൂടാതെ ഇത് പകുതിയിലധികം ആണെങ്കിൽ ഒരു സീറ്റിന് 3000 ൽ കൂടുതൽ അത് ആഭ്യന്തരമാണ് ഫ്ലൈറ്റ് തുടർന്ന് ഭക്ഷണം വിളമ്പുന്നു പക്ഷേ അത് ഒരു സൌജന്യ ഭക്ഷണമല്ല തുടർന്ന് ഇവ ഓരോന്നും ടെസ്റ്റ് കേസായി മാറുന്നു അതിനാൽ ഞങ്ങൾക്ക് 1 2 3 4 5 6 7 8 ആവശ്യമാണ് അതിനാൽ n പാരാമീറ്ററുകൾക്ക് ഓരോന്നും ഒരു ബൂളിയൻ പാരാമീറ്ററാണെങ്കിൽ ഞങ്ങൾക്ക് 2n ടെസ്റ്റ് കേസുകൾ ആവശ്യമാണ് എന്നാൽ ഇത് ഒപ്റ്റിമൈസ് ചെയ്യുന്നതിന് ഞങ്ങൾക്ക് ഒരു സാധ്യതയുണ്ട് കാരണം ഇവയിൽ ചിലത് യഥാർത്ഥത്തിൽ നിബന്ധനകൾ പരിഗണിക്കുന്നില്ല ഇത് ഒരു ആഭ്യന്തര വിമാനമാണെങ്കിൽ അതിന്റെ ടിക്കറ്റ് വില 3000 ൽ താഴെയാണെങ്കിൽ അത് പകുതിയിലധികം നിറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഞങ്ങൾ ശരിക്കും പരിശോധിക്കേണ്ടതില്ല ഇത് ഒരു ശ്രദ്ധിക്കേണ്ട കാര്യമല്ല അതുപോലെ ഇവിടെ ഇത് പകുതിയിലധികം 3000 ൽ കൂടുതൽ ഇത് രണ്ടും കൂടുതലാണോയെന്ന് ഇവിടെ പരിശോധിക്കുക ഇത് ഒരു ആഭ്യന്തര ഫ്ലൈറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങൾ സർവീസ് നടത്തുന്നില്ല അതിനാൽ ഈ രണ്ട് ടെസ്റ്റ് കേസുകളും നമുക്ക് ഒന്നായി സംയോജിപ്പിക്കാം ഒന്ന് അതിനാൽ അനാവശ്യമായ ടെസ്റ്റ് കേസുകൾ നീക്കംചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾ പ്രയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇവ രണ്ടും സംയോജിപ്പിക്കാം കാരണം ഇവ രണ്ടും ഒരേ പ്രവർത്തനം ഉണ്ടാക്കുന്നു കൂടാതെ ഇവ രണ്ടും പകുതിയിൽ കൂടുതൽ അല്ല ഒരു സീറ്റിന് 3000 ൽ കൂടുതൽ പരിഗണിക്കാതെ അത് ആഭ്യന്തരമായാലും അല്ലെങ്കിലും ഞങ്ങൾ സ mealsജന്യമോ ചാർജുള്ളതോ ആയ ഭക്ഷണം കഴിക്കുന്നില്ല അതുപോലെ ഈ രണ്ടും ഇല്ല ഇത് അതെ ആകുന്നിടത്തോളം കാലം ഇത് ഒരു ഗാർഹികമാണോ അല്ലയോ എന്ന് ഞങ്ങൾ വിഷമിക്കേണ്ടതില്ല അതുപോലെ ഈ രണ്ടിനുമിടയിൽ ഇത് പകുതിയിലധികം നിറഞ്ഞിരിക്കുന്നിടത്തോളം അത് ഒരു ആഭ്യന്തര വിമാനമാണ് ഇത് ഒരു സീറ്റിന് 3000 ൽ കൂടുതലാണോ അല്ലയോ എന്ന് ഞങ്ങൾ വിഷമിക്കുന്നില്ല ഞങ്ങൾ ഭക്ഷണം വിളമ്പുന്നു അതിനാൽ ഞങ്ങൾക്ക് അത് ഒപ്റ്റിമൈസ് ചെയ്യാൻ കഴിയും ഞങ്ങൾ നാല് ടെസ്റ്റ് കേസുകൾ കണ്ടെത്തുന്നു അതിനാൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സാധ്യമായ എല്ലാ കോമ്പിനേഷനുകളും ഞങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട് കാരണം നിരവധി പാരാമീറ്ററുകൾ നൽകിയാൽ നമുക്ക് ചില കോമ്പിനേഷനുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് കൂടാതെ തീരുമാന പട്ടിക രൂപീകരിക്കുമ്പോൾ ഒരേ കോമ്പിനേഷനായി രണ്ട് പ്രവർത്തനങ്ങൾ ഉണ്ടെന്ന് ഞങ്ങൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട് അതിനാൽ ഒരേ കോമ്പിനേഷൻ രണ്ട് വ്യത്യസ്ത ടെസ്റ്റ് കേസുകൾക്ക് കാരണമാകുമെന്നത് അസാധ്യമാണ് തുടർന്ന് തീരുമാന പട്ടിക തയ്യാറാക്കുന്നതിൽ ഞങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ട് ഇപ്പോൾ ഈ തീരുമാന പട്ടിക അടിസ്ഥാനമാക്കിയുള്ള പരിശോധന നിങ്ങൾക്ക് പ്രയോഗിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പ്രശ്ന പ്രസ്താവനയിൽ വ്യക്തമായിട്ടുള്ള ധാരാളം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഇൻപുട്ട് അവസ്ഥകളുടെ ചില കോമ്പിനേഷനുകളെ ആശ്രയിച്ച് വ്യത്യസ്ത പ്രവർത്തനങ്ങൾ നടക്കുന്നു ഇൻപുട്ട് വേരിയബിളുകൾ തമ്മിലുള്ള ലോജിക്കൽ ബന്ധം ഇൻപുട്ട് വേരിയബിളുകളുടെ സബ്സെറ്റ് ഉൾപ്പെടുന്ന കണക്കുകൂട്ടൽ ഇൻപുട്ടും ട്ട്പുട്ടും തമ്മിൽ ഒരു കാരണ ഫല ബന്ധം ഉണ്ട് അതിനാൽ ഔട്ട്പുട്ട് വാല്യൂസ് ചില മൂല്യങ്ങളും ഇൻപുട്ടും കാരണമാകുന്നു എന്നാൽ തീരുമാന പട്ടികകളിലെ ഒരു ബുദ്ധിമുട്ട് പരാമീറ്ററുകളുടെ എണ്ണം 3 4 5 ആണെങ്കിൽ നമുക്ക് തീരുമാന പട്ടിക ഉണ്ടാക്കാം എന്നാൽ നമുക്ക് പരാമീറ്ററിന്റെ എണ്ണം 30 പറയുന്നു ഓരോന്നും 3 4 മൂല്യങ്ങൾ പറയട്ടെ അതിനാൽ നിരകളുടെ എണ്ണം 320 ആകും 20 പാരാമീറ്ററുകളുടെ സാധ്യമായ എല്ലാ കോമ്പിനേഷനുകളും പരിഗണിക്കുകയാണെങ്കിൽ ഓരോ പാരാമീറ്ററും മൂന്ന് എടുക്കുന്നു മൂല്യങ്ങൾ അങ്ങനെ സാഹചര്യങ്ങളുടെ സാധ്യമായ കോമ്പിനേഷനുകളുടെ എണ്ണം 320 ആയി മാറുന്നു ഇത് സ്വമേധയാ കൈകാര്യം ചെയ്യാനും ടെസ്റ്റ് കേസുകൾ രൂപീകരിക്കാനും തുടർന്ന് ഒപ്റ്റിമൈസ് ചെയ്യാനും വളരെ കൂടുതലാണ് നമ്മൾ അത് നോക്കാനായി മറ്റെന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട് ഇവിടെ മറ്റൊരു ക്വിസ് ഉണ്ട് ഞാൻ പറഞ്ഞതുപോലെ ടെസ്റ്റ് കേസുകൾ രൂപകൽപ്പന ചെയ്യുന്നതിന് ഞങ്ങൾക്ക് ധാരാളം പരിശീലനം ആവശ്യമാണ് ചിലപ്പോൾ സിദ്ധാന്തം അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ സിദ്ധാന്തങ്ങൾ പരിശീലിച്ചില്ലെങ്കിൽ പരിഹാരങ്ങൾ കണ്ടെത്തുന്നില്ല അതിനാൽ മറ്റൊരു പ്രശ്നത്തിനായി തീരുമാന പട്ടിക പരിശോധന രൂപകൽപ്പന ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം അതിനാൽ ഒരു ഇ കൊമേഴ്സ് സൈറ്റ് ഇനിപ്പറയുന്ന കിഴിവ് നൽകുന്നു എന്നതാണ് പ്രശ്നം അതിനാൽ ഇ കൊമേഴ്സ് സൈറ്റിൽ ഒരു പ്രോഗ്രാം റിട്ടേൺ ഉണ്ട് അത് ഒരു ഉപഭോക്താവിന് ബാധകമായ ഡിസ്കൌണ്ട് പ്രദർശിപ്പിക്കുന്നു ഇപ്പോൾ വ്യത്യസ്ത ഡിസ്കൌണ്ടുകൾ നൽകുന്ന വിവിധ വ്യവസ്ഥകൾ ഉണ്ട് 2000 ൽ താഴെ വാങ്ങുന്നതിന് ഒരു അംഗത്തിന് 10 ശതമാനം കിഴിവ് ലഭിക്കും വാങ്ങൽ 2000 രൂപയിൽ കൂടുതലാണെങ്കിൽ ഉപഭോക്താവിന് 15 ശതമാനം കിഴിവ് ലഭിക്കും എസ്ബിഐ കാർഡ് മുഖേനയാണ് വാങ്ങുന്നതെങ്കിൽ 5 ശതമാനം അധിക കിഴിവ് ലഭിക്കും എല്ലാ കിഴിവുകൾക്കും ശേഷമുള്ള വാങ്ങൽ തുക 2000 കവിയുന്നുവെങ്കിൽ ഷിപ്പിംഗ് സൌജന്യമാണ് അതിനാൽ ഇവിടെ പ്രവർത്തനങ്ങളുണ്ട് ഒന്ന് ഇൻപുട്ട് മൂല്യത്തെയും പേയ്മെന്റ് രീതിയെയും ആശ്രയിച്ച് ബാധകമായ ഡിസ്കൌണ്ട് എന്താണ് അതിനാൽ ഇവ രണ്ടും പാരാമീറ്ററുകൾ വാങ്ങൽ തുകയും പേയ്മെന്റ് രീതിയും എന്താണ് അതിനാൽ വാങ്ങൽ തുക 2000 ൽ കുറവാണോ അതോ 2000 ഉം അതിൽ കൂടുതലാണോ എന്ന ഇൻപുട്ട് വ്യവസ്ഥകളെ അടിസ്ഥാനമാക്കി നമുക്ക് ഇവിടെ തീരുമാന പട്ടിക രൂപീകരിക്കാൻ കഴിയും കൂടാതെ ഇത് ഒരു എസ്ബിഐ കാർഡ് അടിസ്ഥാനമാക്കിയുള്ള പേയ്മെന്റാണോ അല്ലയോ എന്നിട്ട് കിഴിവ് പ്രയോഗിച്ചതിന് ശേഷമുള്ള മൊത്തം തുക എത്രയാണ് അതിനാൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡിസ്കൌണ്ട് നിരക്ക് എന്താണ് അത് 10 ശതമാനം 15 ശതമാനം 5 ശതമാനം അല്ലെങ്കിൽ 0 ശതമാനം എന്നിങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾക്കുണ്ട് കൂടാതെ ഷിപ്പിംഗ് സൌജന്യമാണ് അതിനാൽ ദയവായി ഇതിനായുള്ള തീരുമാന പട്ടിക ഉണ്ടാക്കുക ദയവായി ടെസ്റ്റ് കേസുകൾ രൂപീകരിക്കുക കോസ് ഇഫക്റ്റ് ഗ്രാഫിംഗാണ് ബന്ധപ്പെട്ട മറ്റൊരു കോമ്പിനേറ്റേറിയൽ പരിശോധന ചുരുക്കത്തിൽ പറയാൻ കാരണ ഫല ഗ്രാഫ് ഇത് യഥാർത്ഥത്തിൽ ഒരു തീരുമാന പട്ടിക പരിശോധനയാണ് എന്നാൽ അതിന് ഒരു പ്രത്യേക പ്രശ്നത്തിലൂടെ വായിക്കുന്നതിലൂടെ നമുക്ക് നിർദ്ദിഷ്ട നൊട്ടേഷനുകൾ ഉണ്ട് തുടർന്ന് നമുക്ക് ഒരു കാരണ ഫല ഗ്രാഫിന്റെ രൂപത്തിൽ പ്രതിനിധീകരിക്കാം കൂടാതെ തീരുമാന പട്ടികയിൽ വരാൻ ഞങ്ങൾക്ക് നേരായ ശരാശരി രീതി ഉണ്ട് അതിനാൽ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ കോസ് ഇഫക്റ്റ് ഗ്രാഫിംഗ് രീതി യഥാർത്ഥത്തിൽ തീരുമാന പട്ടിക വികസിപ്പിക്കാൻ നമ്മെ സഹായിക്കുന്നു അതിനാൽ നമുക്ക് കോസ് ഇഫക്റ്റ് ഗ്രാഫിനെക്കുറിച്ച് പറയാൻ ഏറ്റവും സംക്ഷിപ്തമായ പ്രസ്താവനയാകാം അതിൽ നമുക്ക് പ്രതിനിധാനം ചെയ്യാൻ കഴിയുന്ന ഒരു പ്രശ്നം നൽകിയിരിക്കുന്നു ഒരു കോസ് ഇഫക്റ്റ് ഗ്രാഫിന്റെ രൂപത്തിൽ പ്രശ്നം നമുക്ക് കോസ് ഇഫക്റ്റ് ഗ്രാഫ് തയ്യാറായിക്കഴിഞ്ഞാൽ തീരുമാന പട്ടികയുമായി വരാൻ ഞങ്ങൾക്ക് നേരായ മാർഗ്ഗമുണ്ട് തുടർന്ന് നമുക്ക് ഓരോ തീരുമാന നിരക്കും ഒരു ടെസ്റ്റ് കേസായി മാറുന്ന തീരുമാന പട്ടിക പരിശോധന പ്രയോഗിക്കാൻ കഴിയും അതിനാൽ ഇവിടെ ഞങ്ങൾ ഇൻപുട്ട് നോക്കുകയും അവയെ കാരണങ്ങൾ എന്നും outputട്ട്പുട്ട് ഇഫക്റ്റ് എന്നും വിളിക്കുന്നു തുടർന്ന് കാരണങ്ങളുടെയും അവസ്ഥകളുടെയും വിവിധ കോമ്പിനേഷനുകൾ ഞങ്ങൾ നോക്കുന്നു കാരണങ്ങളും സംയോജനവും ഫലമുണ്ടാക്കുന്നതിനുള്ള സാധ്യമായ വഴികൾ മാത്രമാണ് ഞങ്ങൾ ഇവിടെ നോക്കുന്നത് അതിനാൽ നിങ്ങൾ നേരത്തെ തീരുമാന പട്ടിക വികസനത്തിൽ ചെയ്യുന്നതുപോലെ സാധ്യമായ എല്ലാ കോമ്പിനേഷനുകളും ഞങ്ങൾ ശരിക്കും പരിഗണിക്കേണ്ടതില്ല അതിനാൽ ഒരർത്ഥത്തിൽ ഇത് കോമ്പിനേറ്ററി സ്ഫോടന പ്രശ്നം ഒഴിവാക്കുന്നു നമുക്ക് ഒരു ഉദാഹരണം ഉപയോഗിച്ച് കോസ് ഇഫക്റ്റ് ഗ്രാഫിംഗ് നോക്കാം കാരണം കാരണം ഇഫക്റ്റ് ഗ്രാഫ് വികസിപ്പിക്കുന്നതിലാണ് ഇവിടെ പ്രധാന കാര്യം നമുക്ക് കോസ് ഇഫക്റ്റ് ഗ്രാഫ് ലഭിച്ചുകഴിഞ്ഞാൽ അത് അടിസ്ഥാനപരമായി തീരുമാന പട്ടിക അടിസ്ഥാനമാക്കിയുള്ള പരിശോധനയാണ് നമുക്ക് ഈ പ്രശ്നം നോക്കാം തുടർന്ന് അതിനെ ഒരു കാരണ ഫല ഗ്രാഫിന്റെ രൂപത്തിൽ പ്രതിനിധീകരിക്കാൻ ശ്രമിക്കാം കോസ് ഇഫക്റ്റ് ഗ്രാഫിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാതെ ഇത് വളരെ ലളിതമാണ് ഈ ഉദാഹരണം പരിഹരിക്കാൻ ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ ശ്രമിക്കാം തുടർന്ന് കോസ് ഇഫക്ട് ഗ്രാഫ് എന്താണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും നമുക്ക് പ്രശ്നം നോക്കാം ഒരു ബാങ്കിൽ ഞങ്ങൾ ഒരു ലക്ഷം രൂപയിൽ താഴെ തത്ത്വമായി നിക്ഷേപിക്കുകയാണെങ്കിൽ പലിശ നിരക്ക് ബാധകമാകുന്നത് 6 ശതമാനം 7 ശതമാനം അല്ലെങ്കിൽ 8 ശതമാനം നിക്ഷേപത്തെ ആശ്രയിച്ച് 1 വർഷം 3 വർഷം അല്ലെങ്കിൽ 5 വർഷമാണ് നിക്ഷേപം ഒരു ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ പലിശ നിരക്ക് 7 ശതമാനം 8 ശതമാനം 9 ശതമാനം ഇത് 1 വർഷത്തിൽ കുറവാണോ 1 മുതൽ 3 വർഷം വരെ അല്ലെങ്കിൽ 3 വർഷവും അതിനുമുകളിലും ആണോ എന്നതിനെ ആശ്രയിച്ചിരിക്കും അതിനാൽ ഈ പ്രശ്നത്തിന്റെ കാരണ ഫല ഗ്രാഫ് വികസിപ്പിക്കാൻ നമുക്ക് ശ്രമിക്കാം നമുക്ക് ആദ്യം കാരണങ്ങളും ഫലങ്ങളും തിരിച്ചറിയാം നിക്ഷേപം 1 വർഷത്തിൽ കുറവാണെങ്കിൽ ഇവയാണ് വ്യത്യസ്ത ഇൻപുട്ടുകൾ നിക്ഷേപം 1 വർഷത്തിൽ കുറവാണ് നിക്ഷേപം 1 വർഷത്തിനും 3 വർഷത്തിനും ഇടയിലാണ് നിക്ഷേപം 3 വർഷത്തിൽ കൂടുതലാണ് നിക്ഷേപം ഒരു ലക്ഷത്തിൽ താഴെയാണ് നിക്ഷേപം 1 ലക്ഷത്തിൽ കൂടുതലാണ് അതിനാൽ ഇവയെല്ലാം ഇൻപുട്ട് കാരണങ്ങളാണ് എന്നിട്ട് അതിന്റെ ഫലങ്ങൾ 6 ശതമാനം 7 ശതമാനം 8 ശതമാനം 9 ശതമാനം നിരക്കുകളാണ് ഈ കാരണങ്ങളുടെ നിർദ്ദിഷ്ട കോമ്പിനേഷനുകൾ ചില ഫലങ്ങൾ ഉണ്ടാക്കുന്നു ഉദാഹരണത്തിന് നിക്ഷേപം 1 വർഷത്തിൽ കുറവാണ് നിക്ഷേപം 1 ലക്ഷത്തിൽ താഴെയാണ് അത് 6 ശതമാനം ഉത്പാദിപ്പിക്കും നിക്ഷേപം 1 വർഷം മുതൽ 3 വർഷം വരെയും നിക്ഷേപം 1 ലക്ഷത്തിൽ കുറവാണെങ്കിൽ അത് 7 ശതമാനം ഉത്പാദിപ്പിക്കും കൂടാതെ നിക്ഷേപം 1 വർഷത്തിൽ കുറവാണെങ്കിൽ നിക്ഷേപ തുക 1 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ അത് 7 ശതമാനവും നൽകും ഇനി നമുക്ക് ഈ വശങ്ങളെ പ്രതിനിധീകരിക്കാം അതിനാൽ കാരണങ്ങളും ഫലങ്ങളും ഞങ്ങൾ സർക്കിളുകൾ നോഡുകൾ എന്നിവയുടെ രൂപത്തിൽ സൂചിപ്പിക്കുന്നു ഞങ്ങൾ എല്ലാ 5 കാരണങ്ങളും എഴുതിയിട്ടുണ്ട് തുടർന്ന് എന്തെങ്കിലും ഫലമുണ്ടാക്കുന്ന കാരണങ്ങളുടെ സംയോജനം ഉണ്ടാകുമ്പോൾ ഈ ഇന്റർമീഡിയറ്റ് നോഡുകൾ ഇവിടെ ദൃശ്യമാകും കൂടുതൽ സങ്കീർണമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഒന്നിലധികം തലത്തിലുള്ള ഇന്റർമീഡിയറ്റ് നോഡുകൾ ഉണ്ടായേക്കാം അതിനാൽ ഇവിടെ ഇത് 1 വർഷത്തിൽ കുറവാണെങ്കിൽ അത് ഒരു ലക്ഷത്തിൽ താഴെയാണെങ്കിൽ ഇതാണ് ഇവിടത്തെ അവസ്ഥ അതിനാൽ ഇവ രണ്ടും രണ്ടാണെങ്കിൽ അത് 6 ശതമാനം പലിശ നിരക്ക് നൽകുന്നു നിക്ഷേപം 1 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ അത് 1 വർഷത്തിൽ താഴെയാണെങ്കിൽ അത് 7 ശതമാനം ഉത്പാദിപ്പിക്കുന്നു അത് കുറവാണെങ്കിൽ അതിനാൽ c4 നോക്കേണ്ടതുണ്ട് c4 എനിക്ക് തോന്നുന്നത് ഇത് 1 ലക്ഷത്തിൽ താഴെയാണ് ഇത് 1 മുതൽ 3 വർഷം വരെയാണ് ഇത് 7 ശതമാനം ഉത്പാദിപ്പിക്കുന്നു അതുപോലെ നിക്ഷേപം 1 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ അത് 1 വർഷത്തിൽ കുറവാണെങ്കിൽ അത് 7 ശതമാനവും മറ്റും ഉത്പാദിപ്പിക്കുന്നു അതിനാൽ ഞങ്ങൾക്ക് അത് ലഭിച്ചുകഴിഞ്ഞാൽ തീരുമാന പട്ടിക വികസിപ്പിക്കുന്നത് നേരായതാണ് അതിനാൽ ഞങ്ങൾ നിബന്ധനകളും അതിനുശേഷം അനുബന്ധ പ്രവർത്തനങ്ങളും എഴുതുന്നു കാരണം ഫല ഗ്രാഫിന്റെ നേരായ വിവർത്തനം ഞങ്ങൾ തീരുമാന പട്ടിക തയ്യാറാക്കി കഴിഞ്ഞാൽ ഓരോ നിരയും ഒരു ടെസ്റ്റ് കേസായി മാറുന്നുവെന്ന് നമുക്ക് തീരുമാന പട്ടിക പരിശോധന പ്രയോഗിക്കാൻ കഴിയും അതിനാൽ തീരുമാന പട്ടികയുമായി വരാൻ വളരെ ലളിതമായ സാങ്കേതികതയാണ് കോസ് ഇഫക്ട് ഗ്രാഫിംഗ് ഒരു തീരുമാന പട്ടിക അടിസ്ഥാനമാക്കിയുള്ള പരിശോധനയുടെ കാര്യത്തിൽ പരിഗണിക്കേണ്ട ടെസ്റ്റ് കേസുകളുടെ എക്സ്പോണൻഷ്യൽ കോമ്പിനേഷൻ ഒഴിവാക്കുന്നു എന്നാൽ പിന്നീട് വളരെ സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് ടെസ്റ്റ് കേസുകളുടെ എണ്ണം വളരെ വലുതായിത്തീരും ഉദാഹരണത്തിന് വ്യവസ്ഥകളുടെ എണ്ണം ഇൻപുട്ട് വ്യവസ്ഥകൾ 50 ആകുകയും ഓരോന്നും ശരിയോ തെറ്റോ എടുക്കുകയോ അല്ലെങ്കിൽ ഒന്നിലധികം മൂല്യങ്ങൾ എടുക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടെന്ന് നമുക്ക് പറയാം അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന നിരവധി സാഹചര്യങ്ങളുണ്ട് പ്രത്യേകിച്ചും ഉപയോക്തൃ ഇന്റർഫേസുകളുടെയും ഉൾച്ചേർത്ത കൺട്രോളർ സോഫ്റ്റ്വെയറിന്റെയും സന്ദർഭം അതിനാൽ ഈ സന്ദർഭങ്ങളിൽ ശരിക്കും 250 രൂപകൽപ്പന ചെയ്യുന്നു അതിനാൽ നമുക്ക് 50 ഇൻപുട്ട് പാരാമീറ്ററുകൾ പറയാം ഓരോന്നും രണ്ട് മൂല്യങ്ങൾ എടുക്കുന്നു ഒരു പരിശോധനയ്ക്ക് ആവശ്യമായ ടെസ്റ്റ് കേസുകളുടെ എണ്ണം പവർ 50 മുതൽ 2 വരെയാണ് അതിനാൽ സാധ്യമായ എല്ലാ കോമ്പിനേഷനുകളും 2 മുതൽ പവർ 50 വരെയാകാൻ ഞങ്ങൾ ശ്രമിക്കുന്നു അതിനാൽ കുറഞ്ഞ എണ്ണം ടെസ്റ്റ് കേസുകൾ ഉപയോഗിച്ച് മതിയായ പരിശോധന നടത്താൻ ഞങ്ങൾക്ക് ചില ഫലപ്രദമായ മാർഗ്ഗങ്ങൾ ആവശ്യമാണ് അത് ജോഡി തിരിച്ചുള്ള പരിശോധനയെക്കുറിച്ചാണ് ഇവിടെ രണ്ടിലും ഇൻപുട്ട് മൂല്യങ്ങളുടെ സാധ്യമായ എല്ലാ കോമ്പിനേഷനുകളും പരിഗണിക്കേണ്ടതില്ലെന്ന് ഞങ്ങൾ കാണിക്കുന്നു തീരുമാന പട്ടിക അടിസ്ഥാനമാക്കിയുള്ള പരിശോധനയും കാരണ ഫല ഗ്രാഫും സാധ്യമായ എല്ലാ ഇൻപുട്ട് കോമ്പിനേഷനുകളും ഞങ്ങൾ പരിഗണിച്ചു ഇവിടെ ഞങ്ങൾ അവരെ പരിഗണിക്കില്ല അടുത്ത പ്രഭാഷണത്തിൽ ജോഡി തിരിച്ചുള്ള പരിശോധനയെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യും